നമസ്കാരം മൊഡ്യൂൾ 1 ന്റെ യൂണിറ്റ് 12 ലേക്ക് സ്വാഗതം ഇത് പഠന ടാക്സോണമിയുമായി ബന്ധപ്പെട്ട് മെറ്റാകോഗ്നിറ്റീവ് നോലെഡ്ജിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഭാഗമാണ് മുമ്പത്തെ യൂണിറ്റിൽ നാം അറിവിന്റെ സ്വഭാവം നോക്കി അറിവ് എന്താണെന്ന് നിർവചിക്കുന്നത് ഇപ്പോഴും തത്വശാസ്ത്രപരമായി പരിഹരിക്കപ്പെടാത്ത ചോദ്യമാണെന്ന് നാം ശ്രദ്ധിച്ചു അതിനാൽ അറിവ് എന്ന വാക്ക് നിർവചിക്കാൻ നാം ഒരു ശ്രമവും നടത്തിയില്ല പൊതുവെ ഓപ്പറേറ്റീവ് തലത്തിൽ ഫാക്ച്വൽ കൺസെപ്ച്വൽ പ്രൊസീഡ്യൂറൽ മെറ്റാകോഗ്നിറ്റീവ് എന്ന നാല് വിജ്ഞാന വിഭാഗങ്ങളെ നാം തിരഞ്ഞെടുത്തു കൂടാതെ ഈ നാല് വിഭാഗത്തിലുള്ള അറിവുകളെക്കുറിച്ചും നാം ഒരു ചുരുക്കവിവരണം നൽകി എന്താണ് സംഭവിക്കുന്നത് എന്നാൽ മെറ്റാകോഗ്നിറ്റീവ് അറിവ് എന്താണെന്ന് നാം ചുരുക്കമായി നിർവചിക്കുമ്പോൾ നമ്മുടെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിന്റെ പശ്ചാത്തലത്തിൽ മെറ്റാകോഗ്നിറ്റീവ് അറിവിനെക്കുറിച്ച് കുറച്ചുകൂടി പഠിക്കുന്നത് അധ്യാപകരെ അവരുടെ സ്വന്തം വിദ്യാർത്ഥികളെ പരിപാലിക്കാൻ വളരെയധികം പ്രാപ്തരാക്കുമെന്ന് നമുക്ക് തോന്നും ഇപ്പോൾ ഈ യൂണിറ്റിൽ മെറ്റാകോഗ്നിറ്റീവ് അറിവിന്റെ സ്വഭാവവും പ്രാധാന്യവും മനസിലാക്കുക എന്നതാണ് ഉദ്ദേശം വിശദമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനോ അധ്യാപകൻ അത് എങ്ങനെ തന്റെ നിർദ്ദേശത്തിൽ ഉൾപ്പെടുത്തണം എന്നതുമായി ബന്ധപ്പെട്ടോ നാം ഒരു പരിശ്രമവും നടത്തുന്നില്ല പിന്നീടുള്ള ഒരു മൊഡ്യൂളിൽ നാം അതിനു ശ്രമിക്കും മെറ്റാകോഗ്നിഷനിലേക്ക് വരുമ്പോൾ എന്താണ് അത് മെറ്റാകോഗ്നിഷൻ എന്നാൽ ഒരാൾ അയാളുടെ സ്വന്തം ചിന്തകളെക്കുറിച്ചു തന്നെ ചിന്തിക്കുന്നതാണ് അതിനാലാണ് നാം മെറ്റാ എന്ന പദം ഉപയോഗിക്കുന്നത് ആ അർത്ഥത്തിൽ നമ്മൾ നമ്മുടെ സ്വന്തം ചിന്തയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് ഒരു ഉയർന്ന ഓർഡറിൽ ഉള്ള ചിന്താശേഷിയായി മാറുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ സ്വന്തം കഴിവുകൾ അറിവ് അല്ലെങ്കിൽ പഠനം വിലയിരുത്താനുള്ള കഴിവ് അല്ലെങ്കിൽ മറ്റൊരു നിർവചനത്തിൽ പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ സ്വന്തം അറിവ് ചിന്താ പ്രക്രിയകൾ എന്നിവയെക്കുറിച്ചുള്ള അവബോധം ഒരേ നിർവചനത്തിന്റെ നിരവധി വകഭേദങ്ങളിൽ ഇത് നിർവചിക്കപ്പെട്ടിട്ടുണ്ട് ഇത് എന്തുകൊണ്ട് പ്രധാനമാണ് മെറ്റാകോഗ്നിറ്റീവ് കഴിവ് ഒരു വിദ്യാർത്ഥി എത്ര നന്നായി പഠിക്കുന്നുവെന്നും എത്ര നേരം പഠിക്കുന്നുവെന്നും ഉള്ളതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത് ഒരു വിദ്യാർത്ഥിയുടെ പഠന പ്രക്രിയയുടെ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് അതും നാല് വർഷത്തെ എഞ്ചിനീയറിംഗ് കോഴ്സിൽ അത് വിദ്യാർത്ഥിയുടെ പഠനം എത്രത്തോളം നന്നായും ദീർഘമായും നടക്കുന്നു എന്നതിനെ സ്വാധീനിക്കും വിദ്യാർത്ഥികൾ എത്ര ആഴത്തിൽ പഠിക്കുന്നുവെന്നതും മെറ്റാകോഗ്നിറ്റീവ് കഴിവിനെ ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ ആ പരിധി വരെ ഇത് മുഖ്യമാണ് മെറ്റാകോഗ്നിഷനെക്കുറിച്ച് നാം എന്തിന് ആശങ്കപ്പെടണമെന്ന് നമുക്ക് വീണ്ടും ഊന്നിപ്പറയാം ഉയർന്ന പ്രകടനം കാഴ്ചവയ്ക്കുന്ന വിദ്യാർത്ഥികൾക്ക് മികച്ച മെറ്റാകോഗ്നിറ്റീവ് കഴിവുകൾ ഉണ്ടെന്നതിന് ഗവേഷണത്തിലൂടെ മതിയായ തെളിവുണ്ട് നിങ്ങൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എടുക്കുന്നു പ്രത്യേകിച്ചും ഒരു സ്വയംഭരണ സ്ഥാപനത്തിൽ നിങ്ങൾ വിദ്യാർത്ഥികളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ ഉയർന്ന പ്രകടനം കാഴ്ചവയ്ക്കുന്ന വിദ്യാർത്ഥികൾക്ക് പൊതുവെ മികച്ച മെറ്റാകോഗ്നിറ്റീവ് കഴിവുകൾ ഉണ്ടെന്ന് നമുക്ക് കാണാം അതേസമയം ദുർബലരായ വിദ്യാർത്ഥികൾക്ക് മറ്റ് കുറവുകൾക്ക് പുറമെ മോശം മെറ്റാകോഗ്നിറ്റീവ് കഴിവുകളിലും കുറവുണ്ടാകും ഇത് കേവലം മോശം മെറ്റാകോഗ്നിഷൻ കഴിവുകൾ മാത്രം ആയിരിക്കില്ല മറ്റ് കുറവുകളും ഉണ്ടാകാം എന്നാൽ മോശം മെറ്റാകോഗ്നിറ്റീവ് വൈദഗ്ദ്ധ്യം അദ്ദേഹത്തിന്റെ പ്രകടനത്തിന്റെ ഒരു പ്രധാന ഭാഗവാക്കായിയ്ക്കും അതിനാൽ മോശം മെറ്റാകോഗ്നിഷൻ കഴിവ് കുറവിന്റെ ഒരു വലിയ കാരണമാണെന്ന് നമുക്ക് പറയാൻ കഴിയും അതിനാൽ ആർക്കെങ്കിലും നന്നായി പ്രകടനം നടത്താൻ കഴിയുന്നില്ലെങ്കിൽ അധ്യാപകൻ ശ്രദ്ധിക്കേണ്ട ഒരു മേഖല അദ്ദേഹത്തിന്റെ മെറ്റാകോഗ്നിറ്റീവ് കഴിവാണ് മോശം മെറ്റാകോഗ്നിറ്റീവ് കഴിവുള്ള വിദ്യാർത്ഥികൾ എന്തുചെയ്യും തങ്ങൾക്ക് അറിയാവുന്ന കോഴ്സ് മെറ്റീരിയലുകൾ നന്നായി മനസിലാക്കി എന്ന് കരുതി അവർ പഠന സമയം ചുരുക്കുന്നു അതിനർത്ഥം ഇത് സമർത്ഥമായി മനസിലാക്കിയിട്ടുണ്ടെന്ന് അവർ കരുതുന്നു മാത്രമല്ല അവർ അതിൽ കൂടുതൽ പരിശ്രമം നടത്തുന്നില്ല അവർ പഠനത്തിനായി വളരെ കുറച്ചു സമയം ചെലവഴിക്കുകയോ അല്ലെങ്കിൽ അവരുടെ ഗ്രാഹ്യത്തിൽ അമിത ആത്മവിശ്വാസം ചെലുത്തുകയോ ചെയ്യുന്നു അത് എവിടെയാണ് പ്രതിഫലിക്കുന്നത് ഒന്നുകിൽ അവർ ടെസ്റ്റുകളിലെ പ്രകടനത്തെ കുറച്ചുകാണുകയോ അമിതമായി വിലയിരുത്തുകയോ ചെയ്യുന്നു ക്ലാസ് ടെസ്റ്റിൽ അവർ എത്രത്തോളം മികച്ച പ്രകടനം കാഴ്ചവച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ അവരോട് ചോദിക്കുകയും അവരുടെ ഗ്രേഡോ മാർക്കോ നേടിയതിനുശേഷം കുറിപ്പുകൾ താരതമ്യം ചെയ്യുകയോ ചെയ്താൽ അവർ ഒന്നുകിൽ അവരുടെ പ്രകടനത്തെ കുറച്ചുകാണുകയോ അമിതമായി വിലയിരുത്തുകയോ ചെയ്യുന്നുവെന്ന് കണ്ടെത്തും ഇവയെല്ലാം കാരണം അവർ മോശം പഠന തീരുമാനങ്ങൾ എടുക്കുന്നു അതായത് എങ്ങനെ പഠിക്കണം ആരുമായി പഠിക്കണം എന്ത് പഠിക്കണം ആരോട് ചോദിക്കണം ആരുമായി ചർച്ച ചെയ്യണം ഇവയുമായി ബന്ധപ്പെട്ട് അവർ മോശം പഠന തീരുമാനങ്ങൾ എടുക്കുന്നു എന്തുകൊണ്ടാണ് നാം മെറ്റാ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് മെറ്റാ ആയി മാറുക എന്നാൽ ഒരാൾ അയാളുടെ സ്വന്തം ബൌദ്ധിക പ്രകടനത്തിന്റെ പ്രേക്ഷകനായി മാറുക എന്നാണ് ഉദ്ദേശിക്കുന്നത് നാം എന്തെങ്കിലും ചെയ്യുമ്പോൾ നാം എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയില്ല എന്നാൽ നാം ഇപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നാം ഏർപ്പെട്ടിരിക്കുന്ന ഒരു പ്രക്രിയ മെച്ചപ്പെടുത്തുന്നത് വളരെ പ്രയാസകരമാണ് ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ഗെയിം കളിക്കുമ്പോൾ ഒരു പരിധി വരെ അത് ശാരീരിക ചലനങ്ങളായതിനാൽ ഒരു കളിക്കാരന് പൊതുവെ അവന്റെ ചില വൈകല്യങ്ങളെക്കുറിച്ച് അറിയാം എന്നാൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് മികച്ച ഉപകരണങ്ങൾ ഉണ്ട് അവിടെ നിങ്ങളുടെ മുഴുവൻ കളിയും വീഡിയോ റിക്കോർഡ് ചെയ്യാനാകും തുടർന്ന് ഒരു പരിശീലകന് അതിൽ അഭിപ്രായമിടാനും നിങ്ങൾ യഥാർത്ഥത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് കൃത്യമായി നിർണ്ണയിക്കാനും കഴിയും ഇതിനർത്ഥം നിങ്ങൾ പ്രകടനം നടത്തുമ്പോൾ നൽകിയ ഫീഡ്ബാക്കിനെ നിങ്ങൾ വിലമതിക്കുന്നുവെന്നും ഇത് നിങ്ങളുടെ പ്രകടനത്തെ വളരെയധികം മെച്ചപ്പെടുത്തുമെന്നുമാണ് ശാരീരിക പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന സാഹചര്യത്തിൽ ഇത് ഇപ്പോൾ പതിവായി നടക്കുന്നു കേവലം ഫോട്ടോഗ്രാഫിംഗ് വീഡിയോ ഗ്രാഫിംഗ് എന്നിവയിലൂടെ വൈജ്ഞാനിക പ്രവർത്തനം ഉൾപ്പെടുന്നിടത്ത് ഒരു വ്യക്തി ഒരു പ്രശ്നത്തിൽ പ്രവർത്തിക്കുമ്പോൾ അത് നിങ്ങൾക്ക് നേരിട്ട് ലഭിക്കില്ല കാരണം അത് നേരിട്ട് അളക്കാൻ കഴിയില്ല നേരിട്ട് നിരീക്ഷിക്കാൻ കഴിയില്ല കാരണം ഇത് ഒരു മാനസിക പ്രക്രിയയാണ് ആ പരിധിവരെ പരിശീലകനോ അല്ലെങ്കിൽ ഇവിടെ അധ്യാപകനോ മാത്രം പെരുമാറ്റത്തെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ പ്രശ്നം പരിഹരിക്കുന്ന സമയത്ത് വിദ്യാർത്ഥി എന്ത് നിർദ്ദിഷ്ട തീരുമാനങ്ങൾ എടുക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി അയാൾക്ക് മെറ്റാകോഗ്നിഷന്റെ ഏത് വശങ്ങളാണ് കുറവുള്ളതെന്നും എന്ന് ഊഹിക്കാൻ മാത്രമേ കഴിയൂ അതിനനുസരിച്ച് ഫീഡ്ബാക്ക് നൽകുകയും വേണം അതിനാൽ മെറ്റാ ആയി മാറുക എന്നത് ഒരു ഉയർന്ന ചിന്താ പ്രക്രിയയാണ് എന്ന് പറയാം ഒരാൾ സ്വയം മെച്ചപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത് അയാൾ സ്വയം ആർജിക്കേണ്ട ഒന്നാണ് ഇപ്പോൾ മെറ്റാകോഗ്നിഷൻ എന്താണ് അത് എങ്ങനെ പ്രകടമാകുന്നു ഉദാഹരണത്തിന് വിദ്യാർത്ഥി പഠന ലക്ഷ്യങ്ങൾ വിജയ മാനദണ്ഡങ്ങൾ വിവരണാത്മക ഫീഡ്ബാക്ക് എന്നിവ ഉപയോഗിക്കുന്നു ഇവയെല്ലാം അവനറിയാം ഉദാഹരണത്തിന് അവൻ ജോലിചെയ്യുമ്പോൾ പഠന ലക്ഷ്യം എന്താണെന്ന് അവനറിയാം എപ്പോൾ വിജയകരമായ മാനദണ്ഡങ്ങൾ തനിക്ക് അറിയാമെന്ന് അദ്ദേഹം വിജയകരമായി പഠിച്ചുവെന്ന് കണക്കാക്കപ്പെടുന്നു കൂടാതെ ആരെങ്കിലും ഫീഡ്ബാക്ക് നൽകുന്നുണ്ടെങ്കിൽ അയാൾ ചെയ്യുന്ന കാര്യങ്ങളുമായി അത് ബന്ധപ്പെടുത്താൻ കഴിയും മെറ്റാകോഗ്നിറ്റീവ് കഴിവുള്ള ഒരു വ്യക്തി പഠന ലക്ഷ്യങ്ങൾ വിജയ മാനദണ്ഡങ്ങൾ വിവരണാത്മക ഫീഡ്ബാക്ക് എന്നിവ ഉപയോഗിക്കും മനോഭാവങ്ങളും ശീലങ്ങളും പഠനത്തെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നും അദ്ദേഹം തിരിച്ചറിയുന്നു അല്ലെങ്കിൽ പഠന മുൻഗണനകളും ശക്തികളും തിരിച്ചറിയാനും ആശയവിനിമയം നടത്താനും പ്രവർത്തിക്കാനും അദ്ദേഹത്തിന് കഴിയും പഠന സാഹചര്യങ്ങൾ വിലയിരുത്താനും അതിനനുസരിച്ച് പ്രവർത്തന പദ്ധതികൾ വികസിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിയും അതിനർത്ഥം അദ്ദേഹം ഒരു പഠനരീതിയിൽ പറ്റിനിൽക്കുന്നില്ല എന്നാണ് പഠന സാഹചര്യത്തിനനുസരിച്ച് സ്വന്തം പദ്ധതി വികസിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു ഉദാഹരണത്തിന് നിങ്ങൾ പ്രോഗ്രാമിംഗിൽ ഒരു കോഴ്സ് പഠിക്കുകയാണെങ്കിലോ മെറ്റീരിയലുകളെക്കുറിച്ചുള്ള വിവരണാത്മക കോഴ്സ് പഠിക്കുകയാണെങ്കിലോ നിങ്ങളുടെ പഠനത്തിനുള്ള പ്രവർത്തന പദ്ധതി വ്യത്യസ്തമായിരിക്കും അവരുടെ പഠനത്തെക്കുറിച്ച് ചിന്തിക്കുകയും അവരുടെ ചിന്തയെക്കുറിച്ച് സംഭാഷണത്തിൽ ഏർപ്പെടുകയും ചെയ്യുക അവരുടെ സഹപ്രവർത്തകരുമായോ സുഹൃത്തുക്കളുമായോ അധ്യാപകരുമായോ അവരുടെ ചിന്തയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് പലപ്പോഴും കാണാം സാധാരണയായി ആളുകൾ അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു മെറ്റാകോഗ്നിറ്റീവ് കഴിവുള്ള ഒരു വ്യക്തി സമപ്രായക്കാരുമായും പരിശീലകരുമായും സംസാരിക്കാൻ തയ്യാറാണ് പഠനത്തിന് തടസ്സങ്ങൾ നേരിടുമ്പോൾ വിദ്യാർത്ഥികൾ വ്യക്തതയും പിന്തുണയും തേടും അതിനാൽ നിങ്ങൾക്ക് ഒരു പ്രത്യേക തടസ്സം മറികടക്കാൻ കഴിയാതെ വരുമ്പോൾ പരിശീലകന്റെ പിന്തുണ തേടുന്നതിൽ അവർ മടി കാണിക്കില്ല ശരി നമുക്ക് ശരിയായ മെറ്റാകോഗ്നിഷനിലേക്ക് വരാം വിജ്ഞാനത്തിൻറെ വിഭാഗത്തിലെ സാഹിത്യത്തിൽ അവ വിശാലമായി രണ്ട് വശങ്ങളായി തിരിച്ചിരിക്കുന്നു അതിലൊന്നാണ് റിഫ്ലക്ഷൻ അഥവാ പ്രതിഫലനം മറ്റൊന്ന് സെല്ഫ് റെഗുലേഷൻ അഥവാ സ്വയം ക്രമീകരണം പ്രതിഫലനത്തെ അവബോധമായും കണക്കാക്കാം ഇവിടെ നിങ്ങളുടെ അറിവിനെക്കുറിച്ചും നിങ്ങളുടെ സ്വന്തം ചിന്താ പ്രക്രിയയെക്കുറിച്ചും നിങ്ങൾക്ക് അറിയാം സ്വയം ക്രമീകരണം എന്നാൽ പഠനത്തെക്കുറിച്ച് എങ്ങനെ സ്വയം നിർവ്വഹിക്കാമെന്നാണ് അർത്ഥമാക്കുന്നത് ഞാൻ എങ്ങനെ നിർവ്വഹിക്കും പഠന പ്രക്രിയ എങ്ങനെ കൈകാര്യം ചെയ്യാം അതാണ് സ്വയം ക്രമീകരണം മെറ്റാകോഗ്നിഷന്റെ ചില വശങ്ങളിൽ ഒരാൾക്ക് കുറവുണ്ടാകാം മെറ്റാകോഗ്നിഷന്റെ എല്ലാ വശങ്ങളിലും അത് ഉണ്ടാകണമെന്നില്ല ഇപ്പോൾ സംഭവിക്കുന്നത് മുതിർന്ന ആളുകൾ അവരുടെ പ്രൊഫഷണൽ ജീവിതത്തിലേക്ക് പ്രവേശിച്ചുകഴിഞ്ഞാൽ ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്നതിനെക്കുറിച്ചുള്ള ന്യായമായ മെറ്റാകോഗ്നിറ്റീവ് കഴിവുകൾ നേടുന്നതായി കാണപ്പെടുന്നു മറ്റുള്ളവരോട് ചോദിച്ചു മനസ്സിലാക്കുന്നതിൽ അവർക്ക് പ്രശ്നമില്ല എന്നാൽ അതേ സമയം നാം ചർച്ച ചെയ്യുന്ന പ്രായത്തിലുള്ള നിങ്ങൾക്ക് നവവിദ്യാർത്ഥികൾ എന്ന് പറയാൻ കഴിയുന്നവർക്ക് മെറ്റാകോഗ്നിഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് പരിശീലനം ആവശ്യമാണ് ഇപ്പോൾ എന്താണ് റിഫ്ലക്ഷൻ അഥവാ പ്രതിഫലനം വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്വന്തം അറിവിനെക്കുറിച്ചും ചിന്തയെക്കുറിച്ചും അവബോധവുമുണ്ട് ഇപ്പോൾ അറിവിന്റെ പ്രതിഫലനമോ അവബോധമോ എന്തൊക്കെയാണ് ഇത് ഫ്ലാവെൽ പറഞ്ഞതു പ്രകാരമാണ് അവെയർനെസ് ഓഫ് നോലെഡ്ജ് അഥവാ അറിവിനെക്കുറിച്ചുള്ള അവബോധം അവെയർനെസ് ഓഫ് തിങ്കിങ് അഥവാ ചിന്തയെക്കുറിച്ചുള്ള അവബോധം അവെയർനെസ് ഓഫ് തിങ്കിങ് സ്ട്രാറ്റജിസ് അഥവാ ചിന്താ തന്ത്രങ്ങളെക്കുറിച്ചുള്ള അവബോധം അറിവിനെക്കുറിച്ചുള്ള അവബോധം എന്താണ് ഒരാൾക്ക് എന്തറിയാം എന്താണ് അറിയാത്തത് എന്താണ് അറിയാൻ ആഗ്രഹിക്കുന്നത് എന്നിവ മനസിലാക്കുക 3 എണ്ണം ഉൾപ്പെടുന്നു എനിക്കറിയാവുന്നതെന്താണ് എനിക്കറിയാത്തതെന്താണ് ഞാൻ അറിയേണ്ടത് എന്താണ് ഒരു ഉദാഹരണമായി തന്നിരിക്കുന്ന നടപടിക്രമം എങ്ങനെ പ്രയോഗിക്കാമെന്ന് എനിക്കറിയാം പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇത് പ്രയോഗിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല ഇതിനർത്ഥം ആദ്യത്തെ രണ്ട് കേസുകൾ തൃപ്തികരമാണെന്ന് അവനറിയാം അതായത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ എനിക്കറിയാം പക്ഷേ എനിക്ക് മറ്റെന്തെങ്കിലും അറിയില്ല ഇപ്പോൾ ആ പ്രത്യേക അവബോധം ഉപയോഗിച്ച് ഞാൻ എന്തുചെയ്യും എന്നത് അടുത്ത ഘട്ടമാണ് എന്നാൽ കുറഞ്ഞത് എങ്ങനെ പ്രയോഗിക്കാമെന്ന് എനിക്ക് അറിയാം എന്നാൽ ഈ പ്രത്യേക പ്രശ്നത്തെക്കുറിച്ച് എനിക്ക് എല്ലാം അറിയാമെന്ന നിലപാട് ഞാൻ സ്വീകരിക്കുന്നില്ല അതായത് മോശം മെറ്റാകോഗ്നിറ്റീവ് അറിവ് അറിവിന്റെ ഈ അവബോധത്തിൽ മറ്റുള്ളവരുടെ അറിവിനെക്കുറിച്ചുള്ള അവബോധവും ഉൾപ്പെടും ഉദാഹരണത്തിന് എനിക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് എന്റെ സുഹൃത്തിന് ചിലത് അറിയാം എനിക്ക് ആ അറിവ് ഉണ്ടെങ്കിൽ ഞാൻ ആ സുഹൃത്തിന്റെ അടുത്ത് ചെന്ന് ചോദിക്കും ഉദാഹരണത്തിന് നടപടിക്രമങ്ങൾ എപ്പോൾ പ്രയോഗിക്കാമെന്ന് സുധ മനസ്സിലാക്കുന്നുവെന്ന് എനിക്കറിയാം അതിനാൽ ഇത് എന്നോട് വിശദീകരിക്കാൻ ഞാൻ അവളോട് ആവശ്യപ്പെടും അതിനാൽ ഞാൻ ആ സ്ഥാനം സ്വീകരിക്കുന്നു അത് നല്ല മെറ്റാകോഗ്നിറ്റീവ് അവബോധമാണ് ഇപ്പോൾ ചിന്തയെക്കുറിച്ചുള്ള അവബോധം വൈജ്ഞാനിക ജോലികളും അവ പൂർത്തിയാക്കാൻ ആവശ്യമായതിന്റെ സ്വഭാവവും മനസിലാക്കുക ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൂടാതെ ചിന്തയുടെ ചില വശങ്ങളിൽ ഒരാൾക്ക് കുറവുണ്ടാകാം ഇവിടെ ലളിതമായ ഉദാഹരണം എന്റെ പാഠപുസ്തകം വായിക്കുന്നതിനേക്കാൾ എന്റെ സുഹൃത്തിന്റെ കുറിപ്പുകൾ വായിക്കുന്നത് എനിക്ക് എളുപ്പമാണെന്ന് എനിക്കറിയാം ഇത് എന്റെ ചിന്തയെക്കുറിച്ചുള്ള ഒരു അവബോധമാണ് അതുപോലെ ചിന്താ തന്ത്രങ്ങളെക്കുറിച്ചുള്ള അവബോധം അതായത് എന്റെ പഠനത്തെ നയിക്കാനുള്ള സമീപനങ്ങൾ മനസ്സിലാക്കുക ആദ്യത്തേത് എന്റെ അവബോധമാണ് അതിനുശേഷം ഞാൻ എങ്ങനെ എന്റെ പഠനത്തെ നയിക്കും ഞാൻ അത് അറിഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് തിരഞ്ഞെടുക്കാനുള്ള നിരവധി ഉപായങ്ങൾ ഉണ്ട് ഞാൻ പിന്തുടരുന്ന നിരവധി തന്ത്രങ്ങൾ എനിക്ക് ഉണ്ടായിരിക്കാം ഉദാഹരണത്തിന് ഒരു തന്ത്രം പാഠപുസ്തകത്തിൽ നിന്ന് വായിക്കാൻ എനിക്ക് പ്രയാസമാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഞാൻ എന്താണ് പിന്തുടരുന്നത് തിരഞ്ഞെടുക്കാനുള്ള നിരവധി ഉപായങ്ങൾ ഉണ്ട് എനിക്ക് പോയി ഇത് വിശദീകരിക്കാൻ എന്റെ സുഹൃത്തിനോട് ആവശ്യപ്പെടാം ഇത് മറ്റൊരു തന്ത്രമാണ് പുറത്തുപോകുന്നതിന് മുമ്പ് ഞാൻ വായിച്ച കാര്യങ്ങൾ സംഗ്രഹിക്കണം അതിനാൽ ഉദാഹരണത്തിന് സംഗ്രഹിക്കുന്നത് മനസ്സിലാക്കാനുള്ള വളരെ ശക്തമായ ഉപകരണമാണ് അതിനാൽ ഞാൻ പിന്തുടരുന്ന ഒരു തന്ത്രമാണിത് അതിനർത്ഥം ഈ പ്രത്യേക തന്ത്രത്തെക്കുറിച്ച് എനിക്കറിയാം അതിനാൽ ഇവ അറിവിനെയും ചിന്തയെയും കുറിച്ചുള്ള മൂന്ന് തരം അവബോധമാണ് ഇപ്പോൾ മെറ്റാകോഗ്നിറ്റീവ് റെഗുലേഷനിലേക്ക് വരുന്നു ഇപ്പോൾ എന്റെ കഴിവുകളെയും കുറവുകളേയും കുറിച്ച് എനിക്കറിയാം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്റെ പഠനം എങ്ങനെ പോകണമെന്ന് ആസൂത്രണം ചെയ്യണം ആൻ ബ്രൌൺ പറയുന്നത് അനുസരിച്ചു പഠനത്തെ നയിക്കാൻ മൂന്ന് വഴികളുണ്ട് അതിലൊന്ന് ടാസ്ക്കുകളിലേക്കുള്ള സമീപനങ്ങൾ ആസൂത്രണം ചെയ്യുക എന്നതാണ് പ്രശ്നം തിരിച്ചറിയുന്നതും തന്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതും ചിന്തകൾ സംഘടിപ്പിക്കുന്നതും ഫലങ്ങൾ പ്രവചിക്കുന്നതും അതിൽ ഉൾപ്പെടും അതിനാൽ പ്രശ്നം തിരിച്ചറിയുകയും തന്ത്രങ്ങൾ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നത് അർത്ഥമാക്കുന്നത് എനിക്കറിയാവുന്ന കാര്യങ്ങളുടെ ട്രാക്ക് എങ്ങനെ സൂക്ഷിക്കാം ഏത് പാതയിലൂടെയാണ് പോകേണ്ടതെന്ന് ഞാൻ എങ്ങനെ തീരുമാനിക്കും ഈ സമീപനം ഞാൻ എത്രത്തോളം ശ്രമിക്കണം എപ്പോഴാണ് ഞാൻ മറ്റൊരു തന്ത്രത്തിലേക്ക് മാറേണ്ടത് അടുത്തതായി ഞാൻ എന്താണ് ശ്രമിക്കേണ്ടത് നല്ല മെറ്റാകോഗ്നിറ്റീവ് കഴിവുള്ള ചില ആളുകൾക്ക് എന്റെ കൈവശമുള്ള വിവിധ തന്ത്രങ്ങൾക്കിടയിൽ മികച്ച തിരഞ്ഞെടുപ്പ് നടത്താൻ കഴിയും നാം പറഞ്ഞതുപോലെ ടാസ്ക്കിലേക്കുള്ള ആസൂത്രണ സമീപനങ്ങൾ പ്രശ്നം തിരിച്ചറിയുന്നതും തന്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതും നമ്മുടെ ചിന്തകൾ സംഘടിപ്പിക്കുന്നതും ഫലങ്ങൾ പ്രവചിക്കുന്നതും ഉൾപ്പെടുന്നു ഉദാഹരണത്തിന് നിങ്ങൾ ഒരു പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഒരു സമീപനം പിന്തുടരുന്നു ഈ സമീപനം ഞാൻ എത്ര സമയം പിന്തുടരണം എപ്പോഴാണ് ഞാൻ മറ്റൊരു തന്ത്രത്തിലേക്ക് മാറുന്നത് എന്നത് സമയം ലാഭിക്കുന്ന ഒരു പ്രവർത്തനമാണ് നല്ല മെറ്റാകോഗ്നിറ്റീവ് കഴിവുള്ള ഒരു വ്യക്തിക്ക് അത് ചെയ്യാൻ കഴിയും മറ്റൊന്ന് നിങ്ങൾ ചുമതലകൾ ആസൂത്രണം ചെയ്യുകയും അതുമായി മുന്നോട്ടു പോകുകയും ചെയ്യുന്നു അടുത്തതായി സംഭവിക്കുന്നത് പഠന സമയത്ത് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയണം എന്നതാണ് അതായത് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ എത്രത്തോളം പഠിച്ചുവെന്ന് പരിശോധിക്കാൻ നിങ്ങൾക്ക് കഴിയണം അത് അടിസ്ഥാനമാക്കി നമ്മുടെ സ്വന്തം തന്ത്രങ്ങളുടെ ഫലപ്രാപ്തി പരിഷ്കരിക്കുകയും വിലയിരുത്തുകയും ചെയ്യുക അതിനാൽ ഒരാൾക്ക് സ്വയം നിരീക്ഷിക്കാൻ കഴിയും അതൊരു നല്ല മെറ്റാകോഗ്നിറ്റീവ് നിയന്ത്രണമാണ് പിന്നെ എന്ത് സംഭവിക്കും അത് ചെയ്തുകഴിഞ്ഞാൽ പ്രക്രിയയ്ക്കിടെ നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് ഫലങ്ങൾ പരിശോധിക്കാൻ കഴിയും അതായത് പൂർത്തിയാക്കിയ ശേഷം കാര്യക്ഷമതയുടെയും ഫലപ്രാപ്തിയുടെയും നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾക്കെതിരെ ഫലങ്ങൾ വിലയിരുത്താൻ നിങ്ങൾക്ക് കഴിയണം നിങ്ങൾ വളരെ കാര്യക്ഷമമല്ലാത്തതും വളരെ സമയമെടുക്കുന്നതും ഫലപ്രദമല്ലാത്തതുമായ ചില രീതികൾ പിന്തുടരുകയായിരിക്കാം അതിനാൽ കാര്യക്ഷമതയും ഫലപ്രാപ്തിയും ആയ ചില നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചോ അല്ലാതെയോ ഫലം വിലയിരുത്താൻ എനിക്ക് കഴിയണം ഇപ്പോൾ ഈ അറിവുകളോടെ ഒരു ഇൻസ്ട്രക്ടറോ അധ്യാപകനോ ഒരാളുടെ കോഴ്സ് സമയത്ത് മെറ്റാകോഗ്നിറ്റീവിൽ ചില നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തണം ഞങ്ങളുടെ സ്വന്തം ഫീൽഡ് പഠനത്തിലൂടെ ഞങ്ങൾ നിരീക്ഷിച്ചത് നല്ല സ്ഥാപനങ്ങളിൽ ഉയർന്ന പ്രകടനം കാഴ്ചവയ്ക്കുന്ന വിദ്യാർത്ഥികൾ കൂടുതലും അവർക്ക് ന്യായമായ തൃപ്തികരമായ മെറ്റാകോഗ്നിറ്റീവ് കഴിവുകൾ ഉണ്ടായിരിക്കാം എന്നിരുന്നാലും അപര്യാപ്തമായ മെറ്റാകോഗ്നിറ്റീവ് കഴിവുകളുള്ള ചെറിയ ശതമാനം ആളുകളെ നിങ്ങൾ ഇപ്പോഴും കണ്ടെത്തും എന്നാൽ നിങ്ങൾ കോളേജിന്റെ റാങ്ക് ഓർഡർ റാങ്ക് ഓർഡറുകൾ താഴേക്കിറങ്ങുകയും ഉയർന്ന റാങ്കുകൾ ഉള്ള വിദ്യാർത്ഥികളുള്ളിടത്ത് അതാണ് സിഇടി റാങ്കിംഗ് വളരെ ഉയർന്ന സിഇടി റാങ്ക് വരുന്നു അതായത് അവർക്ക് വളരെ മോശം മെറ്റാകോഗ്നിറ്റീവ് കഴിവുകളുണ്ട് മാത്രമല്ല അവ വളരെ ശക്തമായ നെഗറ്റീവ് ശീലങ്ങളും മനോഭാവങ്ങളുമാണ് വരുന്നത് പ്രബോധനത്തിലൂടെയും മെറ്റാകോഗ്നിഷനിലൂടെയും മാത്രമേ അവയെ മറികടക്കാൻ കഴിയൂ ഇത് ഇന്നത്തെ പതിവ് ക്ലാസ് റൂം അധ്യാപനത്തിന്റെ ഭാഗമല്ല എന്തെന്നാൽ ഒന്നുകിൽ അധ്യാപകന് മെറ്റാകോഗ്നിഷന്റെ പങ്കിനെക്കുറിച്ച് അറിയില്ല അല്ലെങ്കിൽ കോഴ്സിന്റെ സിലബസ് അമിതഭാരമുള്ളതാണ് അതിനാൽ വിദ്യാർത്ഥികൾ ആവശ്യമായ കഴിവുകൾ അറിവ് എന്നിവ ശരിക്കും നേടിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനേക്കാൾ വിഷയം തീർക്കുന്നതിൽ നിങ്ങൾ തിരക്കിലാണ് അപ്പോൾ ഇൻസ്ട്രക്ഷൻ മെറ്റാകോഗ്നിഷൻ എന്താണ് ചെയ്യുന്നത് അത് എന്താണ് ചെയ്യുന്നത് ചിന്തയുടെയും പഠന നൈപുണ്യത്തിന്റെയും ഒരു ശേഖരം വികസിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു വിദ്യാർത്ഥികൾ പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോൾ നിങ്ങൾ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ രചനകളിൽ മെറ്റാകോഗ്നിറ്റീവ് ഇൻവെന്ററി എന്ന് വിളിക്കുന്ന ഇതിനെ ഉപയോഗിക്കാം ആളുകൾ വിവിധതരം മെറ്റാകോഗ്നിറ്റീവ് ഇൻവെന്ററികൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഒരാൾക്ക് ആ ഇൻവെന്ററികളിൽ നിന്നും ഘടകങ്ങൾ എടുത്ത് ഒരു അഭ്യാസം ചെയ്യുന്ന സമയത്ത് അൽപം സർവേ നടത്താൻ കഴിയും അതിന്റെ അടിസ്ഥാനത്തിൽ അധ്യാപകർക്ക് വിദ്യാർത്ഥികൾക്ക് ഉചിതമായ ഫീഡ്ബാക്ക് നൽകാൻ കഴിയും ഇൻസ്ട്രക്ഷൻ മെറ്റാകോഗ്നിഷൻ ക്ലാസ് റൂമിൽ ആത്മവിശ്വാസവും സ്വാതന്ത്ര്യവും വളർത്തുന്നു പഠനത്തെ സ്വയം നിയന്ത്രിക്കാൻ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നു തീരുമാനമെടുക്കലും ലക്ഷ്യ ക്രമീകരണ കഴിവുകളും മെച്ചപ്പെടുത്തുന്നു ഏത് പഠന സാഹചര്യങ്ങളിൽ ഏത് തന്ത്രങ്ങൾ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കാൻ സഹായിക്കുന്നു അവശ്യ കഴിവുകളും തൊഴിൽ നൈപുണ്യവും ശക്തിപ്പെടുത്തുന്നു വാസ്തവത്തിൽ ഒരു ബിരുദ പ്രോഗ്രാമിന്റെ ആദ്യ കുറച്ച് സെമസ്റ്ററുകളിൽ ഈ നിർദ്ദേശം പ്രധാനമായും നൽകണം പ്രത്യേകിച്ചും ആദ്യ വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ അവ നൽകിയിട്ടുണ്ടെങ്കിൽ തുടർന്നുള്ള സെമസ്റ്ററുകളിലെ അവരുടെ എല്ലാ പഠനങ്ങളിലും ഇത് വലിയ സ്വാധീനം ചെലുത്തും ഒന്നും രണ്ടും സെമസ്റ്ററുകളിലെ നിരവധി കോഴ്സുകളിൽ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത രീതിയിൽ ഇൻസ്ട്രക്ഷൻ മെറ്റാകോഗ്നിഷന്റെ ഈ ഭാഗം ഉൾപ്പെടുത്തണം ഇപ്പോൾ ചുരുക്കത്തിൽ നാം എന്താണ് പറയുന്നത് എന്നാൽ മെറ്റാകോഗ്നിഷൻ വിദ്യാർത്ഥികളുടെ ഇടപഴകൽ വർദ്ധിപ്പിക്കുമെന്നാണ് വിദ്യാർത്ഥി ഇടപഴകൽ എന്താണ് വിദ്യാർത്ഥി താൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന അറിവുമായി ഇടപഴകുന്നു ഇടപഴകൽ അത്യാവശ്യമാണ് ഇടപഴകൽ എന്നത് അധ്യാപകൻ നൽകിയ പ്രഭാഷണം കേൾക്കുക മാത്രമല്ല അയാൾ അറിവുമായി ഇടപഴകണം അതായത് സമപ്രായക്കാരുമായി ചർച്ച ചെയ്യുകയോ പ്രശ്നം പരിഹരിക്കുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രോജക്റ്റ് ചെയ്യുകയോ ആ വിഷയം കൂടുതൽ പര്യവേക്ഷണം ചെയ്യുകയോ ചെയ്യുക വിദ്യാർത്ഥികളുടെ ഇടപഴകൽ വർദ്ധിപ്പിക്കുന്നതിന് മെറ്റാകോഗ്നിറ്റീവ് വൈദഗ്ദ്ധ്യം സഹായിക്കും കൂടാതെ സ്വന്തം പഠനത്തിന്റെ ചുമതല ഏറ്റെടുക്കാനും വിദ്യാർത്ഥികളുടെ പഠനത്തിന്റെ അർത്ഥവത്തായ വർദ്ധനവ് നേടാനും വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കാനുള്ള കഴിവുമുണ്ട് ഒരാൾക്ക് കാണാനാകുന്നതുപോലെ ഒരാൾക്ക് നല്ല മെറ്റാകോഗ്നിറ്റീവ് കഴിവുകൾ ഉണ്ടെങ്കിൽ അതിന് ഒരു പ്രധാന പങ്ക് വഹിക്കാൻ കഴിയും അതെ അവന് വിഷയവുമായി നന്നായി ഇടപഴകാൻ കഴിയും അല്ലെങ്കിൽ അവന് സ്വന്തം പഠനത്തെ നയിക്കാനും കഴിയും ആ പരിധിവരെ നിങ്ങൾ ദുർബലരായ വിദ്യാർത്ഥികൾ എന്ന് വിളിക്കുന്നതിൽ ഇത് പ്രാധാന്യമർഹിക്കുന്നു ഇപ്പോൾ അസൈൻമെന്റുകൾ രണ്ട് എണ്ണം ചെയ്യാൻ ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നു അതായത് നിങ്ങളുടെ വ്യക്തിപരമായ അനുഭവങ്ങളിൽ നിന്നുള്ള അറിവ് ചിന്ത അല്ലെങ്കിൽ പഠന തന്ത്രങ്ങൾ എന്നിവയുമായി ബന്ധപെട്ടു അപര്യാപ്തമായ മെറ്റാകോഗ്നിറ്റീവ് അവബോധത്തിന്റെ രണ്ട് ഉദാഹരണങ്ങൾ വിവരിക്കുക രണ്ട് ഉദാഹരണങ്ങൾ എഴുതുക പരമാവധി 250 വാക്കുകൾ വീതം ഒരു അദ്ധ്യാപകനെന്ന നിലയിൽ ചില വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്വന്തം അറിവിനെക്കുറിച്ച് അറിയാത്തതിനെ നിങ്ങൾ അഭിമുഖീകരിക്കുമായിരുന്നുവെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുപോലെ അപര്യാപ്തമായ മെറ്റാകോഗ്നിറ്റീവ് റെഗുലേഷന്റെ രണ്ട് ഉദാഹരണങ്ങൾ വിവരിക്കുക ടാസ്ക്കുകൾക്കായി ആസൂത്രണം ചെയ്യുക ഒരാളുടെ സ്വന്തം പുരോഗതി നിരീക്ഷിക്കുക അല്ലെങ്കിൽ ഫലങ്ങൾ വിലയിരുത്തുക എന്നിവ നിങ്ങളുടെ വ്യക്തിഗത അനുഭവങ്ങളിൽ നിന്ന് പറയുക ഒന്ന് നിങ്ങളുടെ അനുഭവം മെറ്റാകോഗ്നിഷനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതില്ല കാരണം മെറ്റാകോഗ്നിഷൻ അനുഭവം ഇത് ഭൂരിഭാഗം അധ്യാപകർക്കും ഒരു പുതിയ പദമാണെന്ന് മനസിലാക്കുന്നു എന്നാൽ നിങ്ങളുടെ സ്വന്തം അനുഭവങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ മെറ്റാകോഗ്നിറ്റീവ് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നതായി നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കും അടുത്ത യൂണിറ്റിൽ എഞ്ചിനീയറിംഗ് പരിജ്ഞാനത്തിന്റെ സ്വഭാവവും വിഭാഗങ്ങളും മനസിലാക്കാൻ ഞങ്ങൾ ശ്രമിക്കും നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വളരെ നന്ദി